സ്വാഗതം ഇത് 59 ആം നമ്പർ ലെക്ചർ ആണ് നോൺ ഹോമോജീനിയസ് ലീനിയർ സമവാക്യങ്ങളുടെ സൊല്യൂഷനെക്കുറിച്ചുള്ള ഡിസ്കഷൻ തുടരുന്നു പ്രത്യേകിച്ചും നമ്മൾ പർട്ടിക്കുലർ ഇന്റഗ്രലുകളെക്കുറിച്ചും അവ കണ്ടെത്തുന്നതിനുള്ള സൊല്യൂഷൻ ടെക്നിക്കുകളെക്കുറിച്ചും സംസാരിക്കുന്നു മുമ്പത്തെ ലക്ച്ചറിൽ നിന്ന് നമ്മൾ ഓർമ്മിക്കുന്നു

എന്നത് പർട്ടിക്കുലർ ഇന്റഗ്രൽ ലഭിക്കുന്നതിനുള്ള വളരെ പൊതുവായ മെത്തേഡ് ആണ് ഇത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇന്റഗ്രൽ ലഭിക്കുന്നതിന് ഉപയോഗിക്കാം എന്നാൽ വലതുവശത്തെ എന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനായിരിക്കുമ്പോൾ ഉള്ള പ്രത്യേക ഫോമും നമ്മൾ ചർച്ചചെയ്തു ആ കേസിൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇവിടെ ആയിരിക്കണം അല്ലാത്തപക്ഷം നമ്മൾക്ക് അത് ചെയ്യാൻ കഴിയില്ല ആയിരിക്കുമ്പോൾ എന്ന രൂപത്തിൽ യുടെ ഫാക്ടർ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി ഇവിടെ എന്നത് 123 പോലുള്ള ഇന്റിജേഴ്സ് ആണ് അങ്ങനെയാണെങ്കിൽ എന്നാണെന്നും നമ്മൾ കണ്ടെത്തി ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വലതുവശത്തെ എന്നത് കോസൈൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ സൈൻ ഫംഗ്ഷൻ ആകുമ്പോൾ ഉള്ളതാണ് ഈ കേസിൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കാവുന്ന ചില നേരിട്ടുള്ള റിസൾട്ടുകൾ നമ്മൾ ഡിറൈവ് ചെയ്യുന്നു അതിനായി നമ്മൾ ഇവിടെ ആദ്യം നോക്കുന്നത് ചെറിയ ഒരു റിസൾട്ട് ആണ് എന്നിവ രണ്ട് കോൺസ്റ്റൻറ്കൾ ആണെങ്കിൽ എന്നും എന്നും ആയിരിക്കും അതിനാൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്താൽ എന്നിങ്ങനെ ലഭിക്കുന്നു

എന്ന റിസൽട്ടിൽ അപ്ലൈ ചെയ്താൽ എന്ന് ലഭിക്കുന്നു ഇവിടെ എങ്കിൽ എന്ന് എഴുതാം റിസൾട്ടുകൾ ഒരിക്കൽ കൂടി സംഗ്രഹിക്കുന്നു വലതുവശത്തെ X അല്ലെങ്കിൽ എന്നീ രൂപത്തിലാണെങ്കിൽ ഈ രണ്ട് സന്ദർഭങ്ങളിലും നമുക്ക് ഇവ ഡീൽ ചെയ്യാൻ സാധിക്കും

രണ്ട് കേസിലും എന്നായിരിക്കണം ഇതിനെ അടിസ്ഥാനമാക്കി ഒരു ഉദാഹരണം എടുക്കുന്നു നമ്മൾ ഇവിടെ എന്നത് വിലയിരുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് എഴുതാം ഇവിടെ ആയതിനാൽ നമുക്ക് എന്ന് റീപ്ലേസ് ചെയ്യാം

മറ്റൊരുദാഹരണം എന്നത് വിലയിരുത്തുന്നു ഇവിടെ ആയതിനാൽ എന്ന് റീപ്ലേസ് ചെയ്യുന്നു തുടർന്ന് എന്ന് ലഭിക്കുന്നു ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ എന്നു ലഭിക്കുന്നു ഇതിൽ എന്ന് റീപ്ലേസ് ചെയ്താൽ എന്ന് ലഭിക്കുന്നു ഇതിൽ നിന്നും എന്നു ലഭിക്കുന്നു എന്നാവുമ്പോൾ ഉള്ള കേസ് നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിക്കുന്നു ഈ കേസിൽ

ഇതിൽ എന്നത് പരിഗണിക്കുന്നു ഡിനോമിനേറ്റർ ടേമിനെ ഫാക്ട് റൈസ് ചെയ്താൽ ഇവിടെ നമ്മൾ മുമ്പ് പഠിച്ച വലതുവശത്ത് ആവുമ്പോൾ ഉള്ള കേസ് അപ്ലൈ ചെയ്താൽ എന്ന് ലഭിക്കുന്നു നമുക്ക് ലഭിക്കേണ്ട നെ എന്നെഴുതാം ഇതിനു സമാനമായി എന്നും എഴുതാം ഈ രണ്ട് പ്രധാന റിസൾട്ടുകളും സംഗ്രഹിക്കുന്നു

ഒരു ഉദാഹരണം എടുക്കുന്നു എന്ന സമവാക്യത്തിൻറെ ജനറൽ സൊലൂഷൻ കണ്ടെത്തുക ജനറൽ സൊലൂഷൻ കണ്ടെത്തുന്നതിന് ആദ്യം തന്നിരിക്കുന്ന സമവാക്യവുമായി ബന്ധപ്പെട്ട ഹോമോജീനിയസ് സമവാക്യത്തിന്റെ സൊല്യൂഷൻ നാം കണ്ടെത്തണം അതിനെ കോംപ്ലിമെൻററി ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു ഇവിടെ ഓക്സിലറി സമവാക്യം എന്ന് ആയിരിക്കും അതിനാൽ എന്ന് ലഭിക്കുന്നു തുടർന്ന് കോംപ്ലിമെൻററി ഫംഗ്ഷൻ എന്ന് എടുക്കുന്നു പർട്ടിക്കുലർ ഇന്റഗ്രൽ ലഭിക്കുന്നതിന് എന്ന് എഴുതാം ഇതിൽ നിന്നും എന്ന് മാറ്റിയെഴുതുകയും നേരത്തെ പഠിച്ച കേസും ഇപ്പോൾ പഠിച്ച കേസും അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ന് ലഭിക്കുന്നു തുടർന്ന് കോംപ്ലിമെൻററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇന്റഗ്രലും കൂട്ടിച്ചേർത്തു ജനറൽ സൊല്യൂഷൻ എന്നു ലഭിക്കുന്നു പതിവായി ഉപയോഗിക്കുന്ന രണ്ട് റൂളുകൾ കൂടി ഇവിടെയുണ്ട് അവയുടെ ഡെറിവേഷനിലേക്ക് പോകുന്നില്ല അവ ഇവിടെ എഴുതുക മാത്രമാണ് ചെയ്യുന്നത് വലതുവശത്ത് എന്ന ഡിഗ്രിയിൽ ഉള്ള പോളിനോമിയൽ ആകുമ്പോൾ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നത് ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ശരിയായി വിശദീകരിക്കുന്നു ഡിനോമിനേറ്ററിലുള്ള എന്ന ഓപ്പറേറ്റർ ഫംഗ്ഷനിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ഡിഗ്രി പദം പുറത്തെടുക്കുക അതോടെ ഡിനോമിനേറ്ററിൽ എന്ന രൂപത്തിൽ ലഭിക്കുന്നു സാധാരണയായി ഒട്ടു മിക്ക കേസുകളിലും യുടെ വാല്യൂ 1 ആയിരിക്കും ഈ കേസ് ചെയ്യുമ്പോൾ നമ്മൾ നെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയി അത് എക്സ്പാൻഡ് ചെയ്യുന്നു നമുക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ മാത്രമേ എക്സ്പാൻഷനിൽ ലഭിക്കുകയുള്ളൂ വലതുവശത്ത് പോലുള്ള ഫംഗ്ഷൻ ഉള്ളപ്പോൾ ഇത് എളുപ്പത്തിൽ സാധ്യമാണ് കാരണം ൽ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ പ്രയോഗിക്കുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് പദങ്ങൾ കൃത്യമായി നേടാൻ കഴിയും നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കൂടുതലായും ഉപയോഗിക്കുന്ന രണ്ടു റിസൾട്ടുകൾ ആണ് എന്നിവ ഈ ആശയം പൊതുവായി കാണിക്കുന്നതിനായി നമ്മൾ ഒരു ഉദാഹരണം മാത്രം എടുക്കുന്നു ഇവിടെ നമുക്ക് ഉണ്ട് ഇതിലെ ഡിനോമിനേറ്ററിൽ നിന്ന് എന്ന ഏറ്റവും കുറഞ്ഞ ഓർഡർ പദം നമ്മൾ പുറത്ത് എടുക്കും അതിനാൽ ഇതിനെ എന്ന് എഴുതാം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ ഇത് ന്യൂമറേറ്ററിലേക്ക് എടുത്തു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്നു ലഭിക്കുന്നു അതിനെ എന്നു എഴുതാം വലതുവശത്ത് ഇവിടെ എന്നത് ന്റെ ഏതെങ്കിലും ഒരു ഫങ്ക്ഷൻ ആയിരിക്കുമ്പോൾ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന രൂപത്തിൽ എടുക്കുന്നു ഇത് ഒരു തരം ഷിഫ്റ്റിംഗ് തിയറമാണ് ഷിഫ്റ്റിംഗ് റിസൾട്ടുകൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നു ഒരു ഉദാഹരണം കാണിക്കുന്നു നമുക്ക് എന്നുണ്ട് റിസൾട്ട്ൻറെ അടിസ്ഥാനത്തിൽ ഇത് എന്നു ലഭിക്കുന്നു അവസാനമായി പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണുന്നതിന് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫോർമുലയാണ് എന്നത് ഇതിൻറെ പ്രൂഫ് ഇവിടെ നൽകുന്നില്ല ഒരു ഉദാഹരണം ചെയ്യുന്നു

ഇവിടെ ഫോർമുല ഉപയോഗിച്ചാൽ എന്നു ലഭിക്കുന്നു നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ് നിരവധി നേരിട്ടുള്ള ഫോർമുലകൾ നമ്മൾ പഠിച്ചു അതിലൊന്ന് ആയിരുന്നു അതോടൊപ്പം എന്നിവയും നമ്മൾ പഠിച്ചു വലതുവശത്ത് എന്ന പോളിനോമിയൽ ആയിരിക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ എന്ന രൂപത്തിൽ എഴുതാൻ കഴിയും അത് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയി എക്സ്പാൻഡ് ചെയ്തുള്ള ആശയം പ്രായോഗികമാക്കുന്നു നമ്മൾക്ക് എന്നീ നേരിട്ടുള്ള മറ്റു ഫോർമുലകളും ഉണ്ടായിരുന്നു അതിനാൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ ലഭിക്കുന്നതിനെക്കുറിച്ചുള്ള നിരവധി ട്രിക്കുകൾ നമ്മൾ കണ്ടു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അഥവാ ഹോമോജീനിയസ് സമവാക്യത്തിന്റെ ജനറൽ സൊലൂഷൻ എങ്ങനെ കണക്കാക്കാമെന്നും നമ്മൾ പഠിച്ചു അതിനാൽ നോൺ ഹോമോജീനിയസ് സമവാക്യത്തിന്റെ ജനറൽ സൊലൂഷൻ കണ്ടെത്തുന്നതിന് കോംപ്ലിമെന്ററി ഫംഗ്ഷനും നിരവധി സാഹചര്യങ്ങളിൽ പഠിച്ച പർട്ടിക്കുലർ ഇന്റഗ്രലും കൂട്ടിചേർക്കേണ്ടതുണ്ട് ലക്ച്ചറുകൾ തയ്യാറാക്കാൻ ഉപയോഗിച്ച റഫറൻസുകൾ ഇവയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി